അവസാന ക്ലാസ്സിൽ നമ്മൾ z പാരാമീറ്ററുകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു അതിനെ ഇംപിഡൻസ് പാരാമീറ്ററുകൾ എന്നും വിളിക്കുന്നു ഈ ക്ലാസ്സിൽ നമ്മൾ അഡ്മിറ്റൻസ് പാരാമീറ്ററുകളെക്കുറിച്ച് സംസാരിക്കും അവയെ Y പാരാമീറ്ററുകൾ എന്നും വിളിക്കുന്നു അഡ്മിറ്റൻസ് പാരാമീറ്ററുകളെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കാം അടിസ്ഥാനപരമായി ഈ കേസിലെ രണ്ട് പോർട്ട് നെറ്റ്വർക്ക് വോൾട്ടേജ് ഡ്രൈവ് അല്ലെങ്കിൽ കറന്റ് ഡ്രൈവ് ആകാം അതിനാൽ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് രണ്ട് പോർട്ട് നെറ്റ്വർക്കിന്റെ ഇരുവശത്തും വോൾട്ടേജ് പ്രയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് കറന്റ് സ്രോതസ്സ് പ്രയോഗിക്കാൻ കഴിയും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തുചെയ്യണം ടെർമിനൽ കറൻറുകളുടെ അഡ്മിറ്റൻസ് പാരാമീറ്റർ നമ്മൾ നിർണ്ണയിക്കണം അഡ്മിറ്റൻസ് പാരാമീറ്റർ നിർണ്ണയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ടെർമിനൽ കറന്റ്കളെ നിർവചിക്കും അല്ലെങ്കിൽ ടെർമിനൽ കറന്റ്കൾ ടെർമിനൽ വോൾട്ടേജിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രകടിപ്പിക്കും നിങ്ങൾ ഇംപിഡൻസ് പാരാമീറ്ററുമായി താരതമ്യപ്പെടുത്തിയാൽ ടെർമിനൽ കറന്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ടെർമിനൽ വോൾട്ടേജുകൾ പ്രകടിപ്പിക്കുകയായിരുന്നു ഇവിടെ ടെർമിനൽ വോൾട്ടേജുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ടെർമിനൽ കറന്റുകൾ പ്രകടിപ്പിക്കുന്നു ടെർമിനൽ വോൾട്ടേജുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ടെർമിനൽ കറന്റ് പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ടെർമിനൽ വോൾട്ടേജും ടെർമിനൽ കറന്റും തമ്മിലുള്ള ബന്ധം ഇനിപ്പറയുന്ന രീതിയിൽ ലഭിക്കും ഇപ്പോൾ നിങ്ങൾ മാട്രിക്സ് രൂപത്തിൽ സംഗ്രഹിക്കുമ്പോൾ പദപ്രയോഗത്തിൽ ചേർത്ത ഈ മൂല്യങ്ങൾ കറന്റ് വെക്റ്ററായി മാറും ഈ സ്ഥിരമായ പദങ്ങളുടെ മാട്രിക്സ് അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ ഈ പദം Y എന്ന പ്രതീകാത്മക രൂപത്തിൽ പ്രതിനിധീകരിക്കാം ഇതിനെ y പാരാമീറ്ററുകൾ അല്ലെങ്കിൽ അഡ്മിറ്റൻസ് പാരാമീറ്ററുകൾ എന്ന് വിളിക്കുന്നു ടെർമിനൽ വോൾട്ടേജുകൾ ഉപയോഗിച്ച് നിങ്ങൾ ടെർമിനൽ കറന്റ്കളെ ബന്ധപ്പെടുത്തുമ്പോൾ കറന്റ് വോൾട്ടേജുകളുടെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗുണന ഘടകങ്ങൾ അഡ്മിറ്റൻസ് പാരാമീറ്ററുകൾ നൽകും ഇപ്പോൾ ഈ അഡ്മിറ്റൻസ് പാരാമീറ്ററുകൾ സീമെൻസിൽ പ്രകടിപ്പിച്ചിരിക്കുന്നു അത് ഇംപെഡൻസിന് വിപരീതമായതിനാൽ മോസിലും പ്രകടിപ്പിക്കാം ഇപ്പോൾ ഇൻപുട്ട് പോർട്ടിൽ 0 സജ്ജമാക്കി ഈ പാരാമീറ്ററുകളുടെ മൂല്യങ്ങൾ വിലയിരുത്താൻ കഴിയും എന്നതിനർത്ഥം നിങ്ങൾക്ക് ഇൻപുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമെന്നാണ് അല്ലെങ്കിൽ മറ്റേ അറ്റത്ത് നിങ്ങൾ 0 മൂല്യം ഇടും അതായത് ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആണ് അതിനാൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടുകൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നതിലൂടെ y പാരാമീറ്ററുകൾ ലഭിക്കുന്നതിനാൽ അവയെ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്ററുകൾ എന്നും വിളിക്കുന്നു ഇപ്പോൾ ഈ അഡ്മിറ്റൻസ് പാരാമീറ്ററുകളുടെ മൂല്യങ്ങൾ വ്യക്തിഗതമായി കണ്ടെത്താൻ ശ്രമിക്കാം അതിനാൽ നിങ്ങൾ ആദ്യം 0 സജ്ജമാക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ഈ രണ്ട് സമവാക്യങ്ങളിലും നിങ്ങൾ 0 എന്ന മൂല്യം ഇടും അതിനാൽ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ രണ്ടാമത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ 0 ന് തുല്യമാണ് എന്നതിനർത്ഥം ഇൻപുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആയതിനാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും നിങ്ങൾക്ക് y 12 ലഭിക്കും അതിനാൽ നിങ്ങൾ പദപ്രയോഗം കാണുകയാണെങ്കിൽ നിങ്ങൾ 0 സജ്ജമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും സാധാരണയായി • ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് അഡ്മിറ്റൻസ് • പോർട്ട്2 മുതൽ പോർട്ട് 1 വരെയുള്ള ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് • പോർട്ട് 1 മുതൽ പോർട്ട് 2 വരെയുള്ള ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് • ഷോർട്ട് സർക്യൂട്ട് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് അതിനാൽ കറന്റ് സ്രോതസ്സ് പോർട്ട് 1 ലും ഷോർട്ട് സർക്യൂട്ട് പോർട്ട്2 ലും കണക്റ്റുചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നിങ്ങനെ മൂന്ന് അളവുകളുടെ മൂല്യങ്ങൾ ലഭിക്കും ഇവ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നിവയുടെ മൂല്യം കണ്ടെത്താനാകും ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ നിങ്ങൾ എന്തു ചെയ്യും കറന്റ് സ്രോതസ്സ് നെ രണ്ടാമത്തെ പോർട്ടിലേക്ക് നിങ്ങൾ ബന്ധിപ്പിക്കും കൂടാതെ നിങ്ങൾ ആദ്യത്തെ പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ 0 ആണ് അതിനാൽ നിങ്ങൾ നേടുന്ന ബാക്കി അളവുകൾ എന്നിവയാണ് ഈ മൂന്ന് അളവുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഇവയുടെ മൂല്യം കണ്ടെത്തും ഇപ്പോൾ y പാരാമീറ്ററുകളുടെ കണക്കുകൂട്ടലുമായി ബന്ധപ്പെട്ട നമ്മളുടെ ചർച്ച ഇപ്പോൾ സംഗ്രഹിക്കാം അതിനാൽ ഈ രണ്ട് ചിത്രങ്ങളിൽ നമ്മളുടെ ചർച്ച സംഗ്രഹിക്കാം ഈ ചിത്രം നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇൻപുട്ട് പോർട്ടിലേക്ക് നമ്മൾ കറന്റ് പ്രയോഗിക്കുന്നു ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആണ് നിങ്ങൾക്ക് ഈ സാഹചര്യം ഉള്ളപ്പോൾ ഔട്ട്പുട്ട് പോർട്ടിലെ കറന്റിനെ ഇൻപുട്ട് പോർട്ടിലെ വോൾട്ടേജ് കൊണ്ട് ഹരിച്ചു മൂല്യം ലഭിക്കും അതുപോലെ കറൻറ് സ്രോതസ്സ് ഔട്ട്പുട്ട് പോർട്ടിൽ കണക്റ്റുചെയ്യുകയും ഇൻപുട്ട് പോർട്ടിൽ ഷോർട്ട് സർക്യൂട്ട് 0 ആക്കുകയും ആണെങ്കിൽ നിങ്ങൾക്ക് മൂല്യങ്ങൾ ലഭിക്കും അഡ്മിറ്റൻസ് പാരാമീറ്ററുകളുടെ മൂല്യങ്ങൾ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്ന് ഈ രണ്ട് ചിത്രങ്ങൾ സംഗ്രഹിക്കും ഇപ്പോൾ രണ്ട് പോർട്ട് നെറ്റ്വർക്ക് ലീനിയർ ആവുകയും അതിന് ആശ്രിത സ്രോതസ്സുകളുമില്ലാതെയും ഇരിക്കുമ്പോൾ ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ന് തുല്യമായിരിക്കും തുടർന്ന് ഈ അവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ രണ്ട് പോർട്ട് റെസിപ്രോക്കൽ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇവിടെ Z പാരാമീറ്ററുകൾ കണക്കാക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തതിന് സമാനമാണിത് ഇത് ലീനിയർ ആവുകയും സ്രോതസ്സുകൾ ഇല്ലാതെയും ഇരിക്കുമ്പോൾ സർക്യൂട്ട് റെസിപ്രോക്കൽ ആയിരുന്നു അതിനാൽ രണ്ട് പോർട്ട് നെറ്റ്വർക്കിന്റെ റെസിപ്രോസിറ്റി z y പാരാമീറ്ററുകൾ എന്നിവയുമായി പരസ്പരബന്ധിതമാക്കാം z പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമ്മൾ വിശദീകരിച്ച അതേ രീതിയിൽ തന്നെ ഇവിടെയും നിങ്ങൾക്ക് ഈ രംഗം തെളിയിക്കാൻ കഴിയും എങ്ങനെ ഈ രണ്ട് ചിത്രങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇൻപുട്ട് പോർട്ടിന് കുറുകെ നമ്മൾ വോൾട്ടേജ് V പ്രയോഗിക്കുകയും അമ്മീറ്ററിന്റെ സഹായത്തോടെ ഔട്ട്പുട്ട് പോർട്ടിൽ ഒഴുകുന്ന കറന്റിന്റെ മൂല്യം കണ്ടെത്തുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ പ്രത്യേക രണ്ട് പോർട്ട് നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വോൾട്ടേജ് സ്രോതസിന്റെയും അമ്മീറ്ററിന്റെയും സ്ഥാനങ്ങൾ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ I V എന്നിവയുടെ അളവുകൾ മാറാൻ പോകുന്നില്ല അതിനാൽ ഈ അവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ സർക്യൂട്ട് റെസിപ്രോക്കൽ ആണെന്ന് പറയും ഇപ്പോൾ റെസിപ്രോക്കൽ നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആണെങ്കിൽ നമുക്ക് അതിന്റെ പൈ തുല്യമായ മാതൃക ഉപയോഗിച്ച് സർക്യൂട്ടിനെ പ്രതിനിധീകരിക്കാൻ കഴിയും പൈ സർക്യൂട്ടിന്റെ ഇടത് പാദം നിങ്ങൾ കാണുകയാണെങ്കിൽ ഇടത് പാദ അഡ്മിറ്റൻസിന്റെ മൂല്യം ആയിരിക്കും വലത് പാദ അഡ്മിറ്റൻസിന്റെ മൂല്യം ആണ് ഇപ്പോൾ ഇവിടെ ആയതിനാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കാം രണ്ടും ശരിയാകും തുടർന്ന് ഈ രണ്ട് പാദങ്ങളെയും ബന്ധിപ്പിക്കുന്ന ബ്രാഞ്ചിന് y12 ന് തുല്യമായ അഡ്മിറ്റൻസ് ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് ഒരു റെസിപ്രോക്കൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ പൈ തുല്യമായ സർക്യൂട്ടിന്റെ സഹായത്തോടെ ആ നെറ്റ്വർക്കിനെ തുല്യമായി പ്രതിനിധീകരിക്കാൻ കഴിയും ഇപ്പോൾ പൊതുവേ നെറ്റ്വർക്ക് റെസിപ്രോക്കൽ അല്ലെങ്കിൽ തുല്യമായ നെറ്റ്വർക്കിന്റെ രൂപത്തിൽ സർക്യൂട്ടിനെ തുല്യമായി പ്രതിനിധീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇനിപ്പറയുന്ന ചിത്രം ഉപയോഗിക്കാം അതിനാൽ നിങ്ങൾ സർക്യൂട്ടിന്റെ ഇടതുവശത്ത് കിർചോഫിന്റെ കറന്റ് നിയമം Kirchhoff's current law ഉപയോഗിക്കുകയാണെങ്കിൽ കറന്റ് ന്റെ മൂല്യം നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതായിരിക്കും കാരണം y11 ൽ പ്രയോഗിക്കുന്നതിനാൽ അത് ആയി മാറും അതുപോലെ കറന്റ് ന്റെ മൂല്യം ഈ ചിത്രത്തിൽ നിന്ന് നോക്കിയാൽ ഈ പാദത്തിലൂടെ ഒഴുകുന്ന കറന്റിന്റെ മൂല്യം ആയിരിക്കും അതിനാൽ ഈ രണ്ട് സമവാക്യങ്ങളും നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ സമവാക്യങ്ങൾ നമ്മളുടെ മുൻ സ്ലൈഡിൽ നമ്മൾ ചർച്ച ചെയ്ത സമവാക്യങ്ങളല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ പ്രത്യേക ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഏതെങ്കിലും രണ്ട് പോർട്ട് നെറ്റ്വർക്കിനെ two port network ഈ പ്രത്യേക തത്തുല്യ നെറ്റ്വർക്കിന്റെ സഹായത്തോടെ പ്രതിനിധീകരിക്കാൻ നമുക്ക് കഴിയും അതിനാൽ ഏത് രണ്ട് പോർട്ട് നെറ്റ്വർക്കിനെയും തുല്യമായി പ്രതിനിധീകരിക്കാൻ കഴിയും ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ തുല്യ നെറ്റ്വർക്കായി പ്രസിദ്ധീകരിക്കാം ഇപ്പോൾ കുറച്ച് ഉദാഹരണങ്ങളുടെ സഹായത്തോടെ ഈ ആശയം മനസിലാക്കാം അതുവഴി നിങ്ങൾക്ക് ഈ ആശയം വ്യക്തമായി മനസിലാക്കാൻ കഴിയു ചുവടെ നൽകിയിരിക്കുന്ന സർക്യൂട്ടിന്റെ y പാരാമീറ്ററുകൾ കണ്ടെത്തേണ്ട ഒരു ഉദാഹരണം നോക്കാം അതിനാൽ ആദ്യം നമ്മൾ എന്തു ചെയ്യും നമ്മൾ കണ്ട y പരാമീറ്ററുകളായ സമവാക്യങ്ങൾ ഈ രണ്ട് സമവാക്യങ്ങൾ ഉപയോഗിക്കും അതിനാൽ നമ്മൾ ഈ രണ്ട് സമവാക്യങ്ങളും ഉപയോഗിക്കുകയും ഈ സർക്യൂട്ടിന്റെ y പാരാമീറ്ററുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എന്നിവയുടെ മൂല്യം നിർണ്ണയിക്കും അതിനാൽ എന്നിവയുടെ മൂല്യം കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഇൻപുട്ട് പോർട്ടിൽ ഒരു കറന്റ് സ്രോതസ്സ് ബന്ധിപ്പിക്കും നമ്മൾ ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും അതിനാൽ സർക്യൂട്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ പ്രത്യേക ചിത്രം കാണുകയാണെങ്കിൽ 8 ഓം റെസിസ്റ്റർ ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യപ്പെടും കാരണം ഇത് ഔട്ട്പുട്ട് പോർട്ടിന്റെ ടെർമിനലുകൾക്ക് കുറുകെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ കറന്റ് 2 ഓം റെസിസ്റ്റൻസിലൂടെ ഒഴുകും ഇപ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ആയതിനാൽ കറന്റ് ഇൻപുട്ട് പോർട്ടിൽ നിന്ന് ഒഴുകുന്നു നമുക്ക് ഈ രണ്ട് റെസിസ്റ്റൻസുകളും സമാന്തരമായി കാണാം അതിനാൽ വോൾട്ടേജ് ന്റെ മൂല്യം എന്തായിരിക്കും ഇപ്പോൾന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ന്റെ മൂല്യം ലഭിച്ചതിനാൽ ഇപ്പോൾ അടുത്തത് നിങ്ങൾ കറന്റ് ഡിവിഷൻ ഉപയോഗിക്കുകയും ഉം ഉം തമ്മിലുള്ള ബന്ധം കണ്ടെത്തുകയും ചെയ്യും അതിനാൽ ഈ പ്രത്യേക ചിത്രം നിങ്ങൾ കാണുകയാണെങ്കിൽ കറന്റ് വിഭജനത്തിന്റെ സഹായത്തോടെ ന്റെ അടിസ്ഥാനത്തിൽ 2 ഓം റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന കറന്റിന്റെ മൂല്യം നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് 2 ഓം റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന ന്റെ ഘടകം കറന്റ് ന്റെ മൂല്യത്തിന് തുല്യമായിരിക്കും കാരണം രണ്ടും വിപരീത ദിശകളിലായിരിക്കും അതിനാൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക

ഇപ്പോൾ ന്റെ മൂല്യം ന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണക്കാക്കിയിട്ടുണ്ടെന്നും ന്റെ അടിസ്ഥാനത്തിൽന്റെ മൂല്യവും നമ്മൾ കണക്കാക്കിയിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയാം നമുക്ക് ഈ മൂല്യം കണ്ടെത്താൻ കഴിയും ഇപ്പോൾ അടുത്ത ചുമതല എന്നിവയുടെ മൂല്യം കണ്ടെത്തുക എന്നതാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തു ചെയ്യും ഔട്ട്പുട്ട് പോർട്ടിൽ നമ്മൾ കറന്റ് സ്രോതസ്സ് കണക്റ്റുചെയ്യും നമ്മൾ ഇൻപുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും അതിനാൽ ഇൻപുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങളുടെ ചിത്രം കാണപ്പെടും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ 0 ആകുകയും ഔട്ട്പുട്ട് പോർട്ടിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വീണ്ടും 4 ഓം റെസിസ്റ്റർ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും കാരണം ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആയതിനാൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യപ്പെടും ഇപ്പോൾ ഇപ്പോൾ അടുത്തതായി നിങ്ങൾ കറന്റ് ഡിവിഷൻ ഉപയോഗിക്കണം അതുവഴി കറന്റ് ന്റെ മൂല്യം ന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അതിനാൽ ഈ ചിത്രം കണ്ടാൽ 2 ഓം റെസിസ്റ്റൻസായ ഈ പ്രത്യേക റെസിസ്റ്റൻസിൽ ഒഴുകും എന്നാൽ ന്റെ ഒരു പാദം ഇതിലൂടെ ഒഴുകും 2 ഓം റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന ന്റെ ഘടകം ആണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കറന്റ് ഡിവിഷൻ ഉപയോഗിച്ച് ന്റെ അടിസ്ഥാനത്തിൽ ന്റെ മൂല്യം കണ്ടെത്താനും കഴിയും അതിനാൽ നിങ്ങൾക്ക് എന്ന് പറയാൻ കഴിയും നിങ്ങൾ ഇപ്പോൾ കണക്കാക്കിയ y പാരാമീറ്ററുകൾ സംഗ്രഹിക്കുകയാണെങ്കിൽ y മാട്രിക്സ് ഇതുപോലെ ആയിരിക്കും

ഇപ്പോൾ ഈ മാട്രിക്സ് കണ്ടാൽ നിങ്ങൾക്ക് എന്നത് ന് തുല്യമാണെന്ന് എളുപ്പത്തിൽ പറയാൻ കഴിയും ഇപ്പോൾ നമുക്ക് സർക്യൂട്ടിൽ ആശ്രിത സ്രോതസ്സുകളൊന്നും ഇല്ലാത്തതിനാൽ സർക്യൂട്ട് റെസിപ്രോക്കൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും പാരാമീറ്ററുകൾ നേരിട്ട് കണ്ടെത്തുന്നതിന് നമുക്ക് പൈ തുല്യമായ സർക്യൂട്ട് ഉപയോഗിക്കാം അതിനാൽ തന്നിരിക്കുന്ന സർക്യൂട്ടിനെ പൈക്ക് തുല്യമായ സർക്യൂട്ടുമായി താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസിലാക്കാൻ കഴിയുന്നത് ന്റെ മൂല്യം ഇപ്പോൾ അടുത്തതായി നമ്മൾ

കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ ന്റെ മൂല്യം ഇവിടെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്റെ മൂല്യം 0 75 സീമെൻസായി ലഭിക്കും ഇപ്പോൾ അടുത്തത് വലത് ഇടത് കണ്ടാൽ അതിനാൽ തത്തുലൃ പൈ സർക്യൂട്ട് ഉപയോഗിച്ച് സമവാക്യങ്ങൾ ഉപയോഗിച്ച് y പാരാമീറ്ററുകൾ കണ്ടെത്തുമ്പോൾ നമ്മൾ കണ്ടതുപോലെ y പാരാമീറ്ററുകളുടെ മൂല്യം നിങ്ങൾക്ക് കണ്ടെത്താനാകും സർക്യൂട്ട് റെസിപ്രോക്കൽ ആണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ y പാരാമീറ്റർ സമവാക്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ y പാരാമീറ്ററുകളുടെ മൂല്യം കണ്ടെത്താം നിങ്ങൾക്ക് നേരിട്ട് പൈ തത്തുലൃ സർക്യൂട്ട് ഉപയോഗിച്ച് y പാരാമീറ്ററുകളുടെ മൂല്യം കണ്ടെത്താനും കഴിയും ഇപ്പോൾ അടുത്തതായി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഇവിടെ സർക്യൂട്ടിന് ഒരു ആശ്രിത കറന്റ് സ്രോതസ്സ് ഉണ്ട് അതിനാൽ y പാരാമീറ്ററുകൾ കണ്ടെത്താൻ നമ്മൾ പാരാമീറ്റർ സമവാക്യങ്ങൾ ഉപയോഗിക്കും കൂടാതെ നിങ്ങൾക്ക് ആശ്രിത സ്രോതസ്സ് ഉണ്ടെങ്കിൽ സർക്യൂട്ട് റെസിപ്രോക്കൽ ആകില്ലെന്ന് നമ്മൾ ന്യായീകരിക്കും മുമ്പത്തെ ഉദാഹരണത്തിൽ നമ്മൾ ചെയ്ത അതേ നടപടിക്രമം നമ്മൾ വീണ്ടും പ്രയോഗിക്കും ഇൻപുട്ട് പോർട്ടിൽ എന്ന കറന്റ് സ്രോതസ്സ് നമ്മൾ ആദ്യം പ്രയോഗിക്കും കൂടാതെ രണ്ട് പോർട്ട് നെറ്റ്വർക്കിന്റെ വലതുവശത്തുള്ള പോർട്ടായ ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും അഡ്മിറ്റൻസ് പാരാമീറ്ററുകളുടെ മൂല്യങ്ങൾ കണ്ടെത്തും അതിനാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സർക്യൂട്ട് ക്രമീകരണം ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്നിവയുടെ മൂല്യങ്ങൾ ലഭിക്കും ഇപ്പോൾ നിങ്ങൾ ഈ സർക്യൂട്ട് കാണുകയാണെങ്കിൽ ഈ നോഡിലെ വോൾട്ടേജ് ആണെന്ന് കരുതുക അതിനാൽ നമ്മൾ എന്തു ചെയ്യും ഈ നോഡിൽ നമ്മൾ കെസിഎൽ പ്രയോഗിക്കുകയും സമവാക്യം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ ഈ നോഡിൽ കെസിഎൽ പ്രയോഗിച്ചാൽ 8 ഓം റെസിസ്റ്റൻസിലൂടെ ഉളള കറന്റ് എന്ന് നിങ്ങൾ കാണും അതിനാൽ ഇത് പോകുന്നു ഇതാണ് നോഡിനുള്ളിലേക്ക് വരുന്ന കറന്റ് മറ്റുള്ളവ പുറത്തേക്ക് പോകുന്നു നോഡിന് പുറത്തേക്ക് പോകുന്നു അതിനാൽ എല്ലാ 4 കറന്റുകളുടെയും സംഗ്രഹം ഈ നോഡിൽ 0 ആയിരിക്കും അതിനാൽ കെസിഎൽ സിദ്ധാന്തം ഉപയോഗിച്ച് നമുക്ക് സമവാക്യം ഉപയോഗപ്പെടുത്താനും I 1 ന്റെ മൂല്യങ്ങൾ കണ്ടെത്താനും കഴിയും അതിനാൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക നമുക്ക് എഴുതാം ഇപ്പോൾ നിങ്ങൾ ലളിതമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂല്യം ലഭിക്കും മറ്റൊരു കാര്യം നോക്കാം 8 ഓം റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന കറന്റ് ആണെന്ന് നിങ്ങൾ പറയുമ്പോൾ കാരണം നിങ്ങൾ ഇൻപുട്ട് പോർട്ടിൽ കറന്റ് സ്രോതസ്സ് നെ ഘടിപ്പിക്ക്കുന്നു നിങ്ങൾ കണക്റ്റുചെയ്യുമ്പോൾ അതിനർത്ഥം 8 ഓം റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന കറന്റിന്റെ മൂല്യം ആയിരിക്കും എന്നാണ് അതേസമയം കറന്റ് എന്നും നിങ്ങൾക്ക് പറയാം മുമ്പത്തെ സമവാക്യത്തിൽ നിങ്ങൾക്ക് ന്റെ മൂല്യം ഉൾപ്പെടുത്താനും ലളിതമാക്കുമ്പോൾ ന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ന്റെ മൂല്യം ലഭിക്കും ലളിതമാക്കിയതിനുശേഷം നിങ്ങൾക്ക് എന്ന് പറയാൻ കഴിയും അതിനാൽ ഇത് നിങ്ങൾക്ക് ലഭിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലുള്ള സമവാക്യത്തിൽ ന്റെ മൂല്യം ഉൾപ്പെടുത്താൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഇത് നേടാനും കഴിയും

ഇപ്പോൾ നിങ്ങൾക്കത് അറിയാം ഇപ്പോൾ അടുത്ത ദൌത്യം നിങ്ങൾ ന്റെ മൂല്യം കണ്ടെത്തുക എന്നതാണ് രണ്ടാമത്തെ നോഡ് കണ്ടാൽ ഈ നോഡിലും നിങ്ങൾ കെസിഎൽ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും

അതിനാൽ അതിനാൽ ഈ സർക്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഉം ഉം ലഭിച്ചു ഇപ്പോൾ അടുത്ത ദൌത്യം ഔട്ട്പുട്ട് പോർട്ടിൽ കറന്റ് സ്രോതസ്സ് ചേർക്കും ഇൻപുട്ട് പോർട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും അതിനാൽ നമ്മൾ അത് ചെയ്യുമ്പോൾ y12 y22 എന്നിങ്ങനെയുള്ള y പാരാമീറ്ററുകളുടെ മൂല്യങ്ങൾ വീണ്ടും ലഭിക്കും ഇപ്പോൾ നോഡ് 1 ൽ നിങ്ങൾ കെസിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ന്റെ മൂല്യം നൽകാം നിങ്ങൾ ഇപ്പോൾ ലളിതമാക്കുമ്പോൾ അതിനാൽ ഇപ്പോൾ നോഡ് 2ൽ നിങ്ങൾ കെസിഎൽ പ്രയോഗിക്കുന്നതിനാൽ എല്ലാ കറന്റ്കളുടെയും സംഗ്രഹം 0 ആണ് അല്ലെങ്കിൽ അതിനാൽ അല്ലെങ്കിൽ അതിനാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ന് തുല്യമല്ലെന്ന് കണ്ടാൽ നിങ്ങൾ 05 സീമെൻസിന് ആയി കണക്കാക്കിയപ്പോൾ 0 25 സീമെൻസാണ് അതിനാൽ ഈ പ്രത്യേക സർക്യൂട്ട് റെസിപ്രോക്കൽ അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ ഇതോടെ അഡ്മിറ്റൻസ് പാരാമീറ്ററുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത നമ്മളുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാൻ കഴിയും